നമസ്കാരം ഇന്ന് കോഴ്സിൻറെ അവസാന വിഷയം സമധർമ്മ സിസ്റ്റം ആരംഭിക്കും സമധർമ്മ സിസ്റ്റം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനാൽ നിയന്ത്രണ സംവിധാനത്തിൻറെ വിശകലനത്തിലും രൂപകൽപ്പനയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സിസ്റ്റത്തിൻറെ ഗണിതശാസ്ത്ര മോഡലിംഗ് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതികളും സ്റ്റേറ്റ് വേരിയബിൾ രീതിയും ലീനിയർ സിസ്റ്റത്തെ മോഡലിംഗ് ചെയ്യുന്നതിനുള്ള ഏറ്റവും സാധാരണമായ രണ്ട് രീതികൾ നമ്മൾ ഇപ്പോൾ പഠിച്ചു അതിനാൽ ഇവ രണ്ടും നമ്മൾ ചർച്ചചെയ്തു ഇപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതി ലീനിയർ ടൈം ഇൻവേരിയൻറെ സിസ്റ്റങ്ങൾക്ക് മാത്രമേ സാധുതയുള്ളൂ അതേസമയം സ്റ്റേറ്റ് സമവാക്യങ്ങൾ ലീനിയർ നോൺലീനിയർ സിസ്റ്റത്തിലേക്ക് പ്രയോഗിക്കാൻ കഴിയും ഇപ്പോൾ നിയന്ത്രണ സംവിധാനം വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു ഇലക്ട്രിക്കൽ മാത്രമല്ല മെക്കാനിക്കൽ താപ ദ്രാവകം ന്യൂമാറ്റിക് മറ്റ് ഇലക്ട്രിക്കൽ സെൻസറുകൾ ആക്ചുവേറ്ററുകൾ എന്നിവയും അതിനാൽ ഈ മൊഡ്യൂളിൽ നിങ്ങൾ എന്തു ചെയ്യും ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുടെ കാര്യത്തിൽ കണ്ട അതേ ഗണിതശാസ്ത്ര മോഡലുകളെ പ്രതിനിധീകരിക്കുന്ന ഈ ചലനാത്മക സിസ്റ്റങ്ങളുടെ അടിസ്ഥാന സവിശേഷതകൾ അവലോകനം ചെയ്യും അതിനാൽ മെക്കാനിക്കൽ മോഡലിംഗിലേക്ക് പോകുന്നതിനുമുമ്പ് സമധർമ്മ സിസ്റ്റം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് മനസിലാക്കാം ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ കണ്ട അതേ ഗണിതശാസ്ത്ര മോഡലിലൂടെ സിസ്റ്റങ്ങളെ പ്രതിനിധീകരിക്കാൻ കഴിയും പക്ഷേ അവ പ്രത്യക്ഷമായി വ്യത്യസ്തമാണ് അതിനാൽത്തന്നെ അവയെ സമധർമ്മ സിസ്റ്റം എന്ന് വിളിക്കുന്നു അതിനാൽ സമാന സിസ്റ്റങ്ങളെ ഒരേ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഇന്റഗ്രോഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷനുകൾ വിവരിക്കുന്നു അതിനാൽ സമാന ഗണിത പ്രാതിനിധ്യം നിങ്ങൾ കാണുന്നു എന്നാൽ ഭൌതികമായി അവ പരസ്പരം വ്യത്യസ്തവുമാണ് എന്തുകൊണ്ടാണ് സമധർമ്മ സിസ്റ്റം പ്രധാനമായിരിക്കുന്നത് അതിനാൽ ഇനിപ്പറയുന്ന 2 കാരണങ്ങളാൽ സമധർമ്മ സിസ്റ്റം എന്ന ആശയം പ്രായോഗികമായി ഉപയോഗപ്രദമാണ് ഒന്ന് ഒരു ഫിസിക്കൽ വ്യവസ്ഥയെ വിവരിക്കുന്ന ഈ സമവാക്യത്തിൻറെ പരിഹാരം മറ്റൊരു മേഖലയിലെ സമധർമ്മ സിസ്റ്റത്തിലേക്ക് നേരിട്ട് പ്രയോഗിക്കാൻ കഴിയും എന്നതാണ് ഇപ്പോൾ രണ്ടാമത്തെ നേട്ടം മെക്കാനിക്കൽ അല്ലെങ്കിൽ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ന്യൂമാറ്റിക് സിസ്റ്റം നിർമ്മിക്കുന്നതിനും പഠിക്കുന്നതിനും പകരം ഒരേ തരം സിസ്റ്റം മറ്റേതൊരു സിസ്റ്റത്തേക്കാളും പരീക്ഷണാത്മകമായി കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നതാണ് പരീക്ഷണാത്മകമായി കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമുള്ള അതിൻറെ ഇലക്ട്രിക്കൽ അനലോഗ് നമുക്ക് നിർമ്മിക്കാനും പഠിക്കാനും കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുന്ന നേട്ടം മറ്റ് സിസ്റ്റങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവ എങ്ങനെ ഗണിതശാസ്ത്രപരമായി മാതൃകയാക്കാമെന്നും ആ സിസ്റ്റത്തിൻറെ ഇലക്ട്രിക്കൽ അനലോഗ് സൃഷ്ടിക്കാൻ കഴിയുമെന്നതും ആണ് അങ്ങനെ നമുക്ക് ഫിസിക്കൽ ഘടന ഇല്ലാതെ തന്നെ സിസ്റ്റത്തിനെ വിശകലനം ചെയ്യാൻ സാധിക്കും മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെ മോഡലിംഗ് ആദ്യം മനസിലാക്കാം അതിനാൽ മെക്കാനിക്കൽ സിസ്റ്റങ്ങളെ പിണ്ഡമുള്ള പിണ്ഡങ്ങളുടെ സംവിധാനങ്ങളായി മാതൃകയാക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളയാത്ത വസ്തുക്കളോ വിതരണം ചെയ്ത പിണ്ഡങ്ങളോ എന്ന് പറയാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തുടർച്ചയായ പിണ്ഡ സംവിധാനം കാണാൻ കഴിയും വിതരണം ചെയ്ത പിണ്ഡവ്യവസ്ഥകളെ ഭാഗിക ഡിഫറൻഷ്യൽ സമവാക്യങ്ങളാൽ മാതൃകയാക്കുന്നു അതേസമയം പിണ്ഡമുള്ള പിണ്ഡങ്ങളെ സാധാരണ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ മിക്കവാറും എല്ലാ സിസ്റ്റങ്ങളും നിരന്തരമാണ് എന്നാൽ മിക്ക കേസുകളിലും അവയെ കൂട്ടത്തോടെ പിണ്ഡമുള്ള മോഡൽ ഉപയോഗിച്ച് കണക്കാക്കുന്നത് എളുപ്പമാണ് അതിനാൽത്തന്നെ ആ സിസ്റ്റങ്ങളുടെ മോഡലുകളെ പ്രതിനിധീകരിക്കുന്നതിന് സാധാരണ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ ഉപയോഗിക്കാം പിണ്ഡം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം വിവർത്തന ചലനത്തിൻറെ ഗതികോർജ്ജം സംഭരിക്കുന്ന ഒരു മൂലകത്തിൻറെ സ്വത്തായി പിണ്ഡം കണക്കാക്കപ്പെടുന്നു പിണ്ഡം ഇലക്ട്രിക് നെറ്റ്വർക്കിൻറെ ഇൻഡക്റ്റൻസിന് സമാനമാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാം W എന്നത് ശരീരത്തിൻറെ ഭാരം ആണെങ്കിൽ M എന്നത് Wg എന്നതിന് തുല്യമായതിനാൽ പിണ്ഡം M നൽകാം എന്താണ് g ഗുരുത്വാകർഷണം മൂലം ശരീരത്തിൻറെ സ്വതന്ത്ര വീഴ്ചയുടെ ത്വരണം ആണ് g ഇത് g എന്നത് സെക്കന്റ് സ്ക്വയറിന് 32 174 അടിക്ക് തുല്യമാണ് അല്ലെങ്കിൽ SI യൂണിറ്റിൽ നിങ്ങൾ കണക്കാക്കുകയാണെങ്കിൽ g സെക്കൻഡ് സ്ക്വയറിന് 9 8066 മീറ്റർ ആയിരിക്കും ഇപ്പോൾ ലീനിയർ മാത്തമാറ്റിക്കൽ സിസ്റ്റത്തിൻറെ സമവാക്യങ്ങൾ എഴുതുന്നത് ആദ്യം പരസ്പരബന്ധിതമായ ലീനിയർ ഘടകങ്ങൾ അടങ്ങിയ സിസ്റ്റത്തിൻറെ മോഡൽ നിർമ്മിച്ച് ന്യൂട്ടൻറെ ചലന നിയമം സ്വതന്ത്ര ബോഡി ഡയഗ്രാമിൽ പ്രയോഗിച്ചാണ് സ്വതന്ത്ര ബോഡി ഡയഗ്രം എന്താണ് സ്വതന്ത്ര ബോഡി ഡയഗ്രം എന്നതിനർത്ഥം നിങ്ങൾ മൂലകത്തിൻറെ പ്രധാന ബോഡി എടുത്ത് ആ ബോഡിയിലോ പിണ്ഡത്തിലോ പ്രയോഗിച്ച ശക്തികളെ കാണിക്കുന്നു എന്നാണ് അതിനാൽ ഇപ്പോൾ മെക്കാനിക്കൽ മൂലകങ്ങളുടെ സങ്കല്പത്തെ വിവിധ അളവുകളിൽ വിവരിക്കാം അല്ലെങ്കിൽ വിവർത്തനം ഭ്രമണം അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിച്ചേർന്നതായി നമുക്ക് പറയാം മെക്കാനിക്കൽ സിസ്റ്റങ്ങളുടെ ചലനത്തെ നിയന്ത്രിക്കുന്ന സമവാക്യങ്ങൾ ന്യൂട്ടൻറെ ചലന നിയമത്തിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ രൂപപ്പെടുത്തിയതാണ് അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ വിവരിക്കുന്നുവെന്ന് നോക്കാം അതിനാൽ വിവർത്തന ചലനം വിവർത്തന ചലനത്തെ നിർവചിച്ചിരിക്കുന്നത് നേരായ അല്ലെങ്കിൽ വളഞ്ഞ പാതയിലൂടെ നടക്കുന്ന ചലനമാണ് വിവർത്തന ചലനത്തെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ ത്വരണം വേഗത സ്ഥാനചലനം എന്നിവയാണ് അതിനാൽ ഇത് ന്യൂട്ടൻറെ ചലനനിയമത്തെ നിയന്ത്രിക്കുന്നു അത് ഓരോ ദിശയിലും ഒരു വളയാത്ത ബോഡിയിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ ബീജഗണിത തുക ബോഡിയുടെ പിണ്ഡത്തിൻറെ ഉൽപ്പന്നത്തിനും ഒരേ ദിശയിലുള്ള ത്വരണത്തിനും തുല്യമാണെന്ന് പ്രസ്താവിക്കുന്നു അതിനാൽ ന്യൂട്ടൻറെ ചലനനിയമത്തെ പ്രതിനിധീകരിക്കാൻ നമുക്ക് കഴിയും കാരണം ബോഡിന്മേൽ പ്രയോഗിക്കുന്ന മൊത്തം ശക്തികളുടെ എണ്ണം Ma ക്ക് തുല്യമാണ് ഇവിടെ M പിണ്ഡവും a എന്നത് ആക്സിലറേഷനാണ് ഇപ്പോൾ ബലം M ഉപയോഗിച്ച് പിണ്ഡം ബോഡിയിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട നിയമത്തിന് നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്ന സമവാക്യം ഇത് പിണ്ഡമാണെന്ന് കരുതപ്പെടുന്നു M ആണ് അതിൻറെ ചിഹ്നം ചലന ദിശ ഈ ദിശയിലാണ് എന്ന് നമ്മൾ പറയുന്നു ബലം f ആണ് അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക a ത്വരണം v രേഖീയ വേഗതയെ സൂചിപ്പിക്കുന്നു y M പിണ്ഡത്തിൻറെ സ്ഥാനചലനം ഇപ്പോൾ പിണ്ഡത്തിന് പുറമേ രേഖീയ വിവർത്തന ചലനത്തിനായി ഇനിപ്പറയുന്ന സിസ്റ്റം ഘടകങ്ങളും ഉൾപ്പെടുന്നു ആ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ലീനിയർ സ്പ്രിംഗ് അതിനാൽ ലീനിയർ സ്പ്രിംഗ് യഥാർത്ഥ സ്പ്രിംഗിൻറെ മാതൃക അല്ലെങ്കിൽ കേബിൾ അല്ലെങ്കിൽ ബെൽറ്റിൻറെ അനുവർത്തനം അതിനാൽ സ്ഥിതികോർജ്ജം സംഭരിക്കുന്ന ഒരു ഘടകമാണിത് അതിനാൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രതിനിധീകരിക്കും നമ്മൾ അതിനെ എന്ന് പ്രതിനിധീകരിക്കും ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ K എന്നത് ഒരു സ്ഥിരാങ്കമാണ് അതിനെ നിങ്ങൾ സാധാരണയായി സ്പ്രിംഗ് സ്ഥിരാങ്കം എന്ന് വിളിക്കുന്നു അത് സ്ഥാനചലനത്തിന് ആനുപാതികമാണ് അതിനാൽ ആണ് ബലം അതിനാൽ സ്പ്രിംഗ് സ്ഥിരാങ്കത്തെ ഒരു സ്റ്റിഫ്നെസ്സ് സ്ഥിരാങ്കം എന്നും വിളിക്കുന്നു അതിനാൽ മുകളിലുള്ള ഈ സമവാക്യത്തിൽ ഇത് സൂചിപ്പിക്കുന്നത് സ്പ്രിംഗ് പ്രവർത്തിക്കുന്ന ശക്തി സ്ഥാനചലനത്തിന് നേരിട്ട് ആനുപാതികമാണ് അല്ലെങ്കിൽ നമുക്ക് വസ്തുവിൻറെ രൂപഭേദം എന്ന് പറയാം ഒരു ലീനിയർ സ്പ്രിംഗ് ഘടകത്തെ പ്രതിനിധീകരിക്കുന്ന മോഡൽ അടിസ്ഥാനപരമായി മുകളിലുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു ഇപ്പോൾ സ്പ്രിംഗ് ടെൻഷൻ ടി ഉപയോഗിച്ച് പ്രീ ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പത്തെ സമവാക്യം പരിഷ്കരിക്കാനാകും ഇപ്പോൾ ആ പിണ്ഡം നീങ്ങുന്നത് കാണുമ്പോൾ ഘർഷണവും ചിത്രത്തിലേക്ക് വരുന്നത് നിങ്ങൾ കാണും അപ്പോൾ വിവർത്തന ചലനത്തിനുള്ള ഘർഷണം എന്താണ് രണ്ട് ഫിസിക്കൽ ഘടകങ്ങൾക്കിടയിൽ ചലനമോ ചലിക്കാനുള്ള പ്രവണതയോ ഉണ്ടാകുമ്പോഴെല്ലാം ഘർഷണ ശക്തികൾ നിലനിൽക്കും ഇപ്പോൾ ഫിസിക്കൽ സംവിധാനങ്ങളിൽ കണ്ടുവരുന്ന ഘർഷണ ശക്തികൾ സാധാരണയായി രേഖീയമല്ലാത്ത സ്വഭാവമാണ് രണ്ട് കോൺടാക്റ്റിംഗ് ഉപരിതലങ്ങൾ തമ്മിലുള്ള സംഘർഷശക്തികളുടെ സ്വഭാവം ഉപരിതലങ്ങളുടെ ഘടനയും ഉപരിതലങ്ങൾ തമ്മിലുള്ള മർദ്ദവും മറ്റുള്ളവയിലെ ആപേക്ഷിക വേഗതയും പോലുള്ള ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഘർഷണശക്തിയുടെ കൃത്യമായ ഗണിതശാസ്ത്ര വിവരണം ബുദ്ധിമുട്ടാണ് 3 വ്യത്യസ്ത തരം ഘർഷണം സാധാരണയായി കണക്കാക്കുന്നു അവരെ എന്താണ് വിളിക്കുന്നത് അവയെ വിസ്കോസ് ഘർഷണം സ്റ്റാറ്റിക് ഘർഷണം കൂലോംബ് സംഘർഷം എന്ന് വിളിക്കുന്നു ഇപ്പോൾ വിസ്കോസ് ഘർഷണം എന്താണ് വിസ്കോസ് ഘർഷണം റിട്ടാർഡിംഗ് ഫോഴ്സിനെ പ്രതിനിധീകരിക്കുന്നു ഇത് പ്രയോഗിച്ച ശക്തിയും വേഗതയും തമ്മിലുള്ള ഒരു രേഖീയ ബന്ധമാണ് സ്കീമാറ്റിക് ഡയഗ്രാമിൽ ചിത്രത്തിൽ ഡാഷ്പോട്ട് അടങ്ങിയിരിക്കും അതിനാൽ നിങ്ങൾ ഈ ചിത്രം കാണുകയാണെങ്കിൽ ഡാഷ്പോട്ടുമായുള്ള വിസ്കോസ് സംഘർഷത്തെ പ്രതിനിധീകരിക്കുന്നു സ്ഥിരമായ മൂല്യം B ആണ് ആണ് വിസ്കോസ് ഘർഷണ ഗുണകം ഇപ്പോൾ അടുത്ത സ്റ്റാറ്റിക് ഘർഷണം സ്റ്റാറ്റിക് ഘർഷണം ചലനത്തെ തുടക്കം മുതൽ തടയുന്ന റിട്ടാർഡിംഗ് ശക്തിയെ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ശരീരം നിശ്ചലമാണെങ്കിലും ചലിക്കുന്ന പ്രവണത ഉള്ളപ്പോൾ മാത്രം നിലനിൽക്കുന്ന ഒരു ഘർഷണ ശക്തിയായി ഇതിനെ നിർവചിച്ചിരിക്കുന്നു ഘർഷണത്തിൻറെ അടയാളം ചലനത്തിൻറെ ദിശയെയോ വേഗതയുടെ പ്രാരംഭ ദിശയെയോ ആശ്രയിച്ചിരിക്കുന്നു ഈ ചലനം ആരംഭിച്ചുകഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഘർഷണശക്തി അപ്രത്യക്ഷമാകും മറ്റ് സംഘർഷങ്ങൾ ഏറ്റെടുക്കും ഇപ്പോൾ മൂന്നാമത്തെ കൂലോംബ് സംഘർഷമാണ് വേഗതയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട് നിരന്തരമായ വ്യാപ്തിയുള്ള ഒരു റിട്ടാർഡിംഗ് ശക്തിയാണ് കൂലോംബ് ഘർഷണം എന്നാൽ വേഗതയുടെ വിപരീത ദിശയിൽ ഘർഷണ ശക്തിയുടെ അടയാളം മാറുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത ഈ മൂന്ന് തരം സംഘർഷങ്ങൾ ഫിസിക്കൽ സംവിധാനങ്ങളിൽ നാം കണ്ടെത്തുന്ന സംഘർഷ പ്രതിഭാസങ്ങളെ വിവരിക്കാൻ ആവിഷ്കരിച്ച പ്രായോഗിക മാതൃകയാണ് ഇപ്പോൾ ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റം സവിശേഷതകളും അവയുടെ പിണ്ഡം M പോലെ നമ്മൾ എടുക്കുന്ന SI യൂണിറ്റും പിണ്ഡത്തിന് SI യൂണിറ്റ് കിലോഗ്രാം ആണ് ദൂരത്തിന് നമ്മൾ സാധാരണയായി y എന്ന് പറയുന്നു അത് മീറ്ററിൽ പ്രതിനിധീകരിക്കുന്നു വേഗത v ഉം SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് അതുപോലെ ത്വരണം ചെറിയ a ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ചെറിയ f ഉപയോഗിച്ച് നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഫോഴ്സ് ചിലപ്പോൾ ക്യാപിറ്റൽ F ഉപയോഗിക്കുന്നതായും SI യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നും നിങ്ങൾ കാണും നമ്മൾ കണ്ട സ്പ്രിംഗ് സ്ഥിരാങ്കത്തെ ക്യാപിറ്റൽ K പ്രതിനിധീകരിക്കുന്നു SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ് വിസ്കോസ് ഘർഷണം കോയഫിഷ്യന്റ് ഇപ്പോൾ ക്യാപിറ്റൽ ബി ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു കൂടാതെ വിസ്കോസ് ഘർഷണം കോയഫിഷ്യന്റിനായുള്ള SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിൻറെ സഹായത്തോടെ നമ്മൾ ചർച്ച ചെയ്ത മെക്കാനിക്കൽ മോഡൽ മനസിലാക്കാം ഇപ്പോൾ ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മാസ് സ്പ്രിംഗ് ഘർഷണ സംവിധാനം നമുക്ക് പരിഗണിക്കാം ഇതിൽ ബന്ധപ്പെട്ട രേഖീയ ചലനം തിരശ്ചീന ദിശയാണ് അതിനാൽ പിണ്ഡം തിരശ്ചീന ദിശയിലേക്ക് നീങ്ങുന്നു അതിനാൽ ഇത് ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു അതിനാൽ സ്ഥാനചലനം തിരശ്ചീന ദിശയിലായിരിക്കും അതിനാൽ ഇതിന് സ്പ്രിംഗ് സ്ഥിരാങ്കം K ഉണ്ട് നിങ്ങൾ ഡാഷ്പോട്ട് ഉപയോഗിച്ചുള്ള സംഘർഷത്തെയും ബി എന്ന് കണക്കാക്കിയ വിസ്കോസ് ഘർഷണ കോയഫിഷ്യന്റ്ന്റിനെയും പിണ്ഡത്തിൽ പ്രയോഗിക്കുന്ന എഫ് ഫോഴ്സിനെയും പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൻറെ സ്വതന്ത്ര ബോഡി ഡയഗ്രം സൃഷ്ടിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും പിണ്ഡം M ഉണ്ടാകും ഈ പിണ്ഡത്തിൽ ബലം പ്രയോഗിക്കുന്നത് സ്പ്രിംഗ് സംഘർഷമാണ് സ്പ്രിംഗ് ടെൻഷൻ പകരം അതിനെ പ്രതിനിധീകരിക്കുന്നു വിസ്കോസ് ഘർഷണം ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു തുടർന്ന് ഈ ദിശയിലേക്ക് പിണ്ഡത്തിന് കാരണമാകുന്ന ബലപ്രയോഗം എന്തെന്നാൽ ഇപ്പോൾ സിസ്റ്റത്തിൻറെ ബലം സമവാക്യം സമാഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക നമുക്ക് f എഴുതാൻ കഴിയും അതിനാൽ ഈ രണ്ട് വിപരീത ദിശയിലായതിനാൽ ഈ ദിശയിൽ പ്രയോഗിക്കുന്ന ശക്തിയാണിത് നമുക്ക് എന്താണ് എഴുതാൻ കഴിയുക

അതിനാൽ f പിണ്ഡത്തിൽ പ്രയോഗിക്കുന്ന നെറ്റ് ഫോഴ്സ് മൈനസ് വിസ്കോസ് ഘർഷണം മൈനസ് സ്പ്രിംഗ് ടെൻഷൻ നിങ്ങൾക്ക് നെറ്റ് ഫോഴ്സ് ലഭിക്കുന്നത് ഇത് വസ്തുവിൻറെ ത്വരിതപ്പെടുത്തലിന് കാരണമാകുന്നു ഇപ്പോൾ മുകളിലുള്ള സമവാക്യം ഏറ്റവും ഉയർന്ന ഓർഡർ ഡെറിവേറ്റീവ് പദം ബാക്കി പദങ്ങളുമായി തുല്യമാക്കി ക്രമീകരിക്കാം നമുക്ക് എന്ത് എഴുതാം നമുക്ക് എഴുതാം ഇപ്പോൾ എന്നിവ യഥാക്രമം വേഗതയെയും ത്വരണത്തെയും പ്രതിനിധീകരിക്കുന്നു അതിനാൽ മുമ്പത്തെ സമവാക്യം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം ഇപ്പോൾ ഔട്ട്പുട്ടും സിസ്റ്റത്തിലേക്കുള്ള ഇൻപുട്ടായി കണക്കാക്കുന്നു ഇപ്പോൾ പൂജ്യ പ്രാരംഭ അവസ്ഥകൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ സമവാക്യത്തിൻറെ ഇരുവശങ്ങളിലുമുള്ള ലാപ്ലേസ് പരിവർത്തനം പൂജ്യ പ്രാരംഭ നിബന്ധനകളോടെ നും ഇടയിലുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ ലഭിക്കും അതിനാൽ ഇതിൻറെ ലാപ്ലേസ് പരിവർത്തനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക ഇത് ആയിരിക്കും

നിങ്ങൾ ഇപ്പോൾ പരിഗണിച്ച മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ ട്രാൻസ്ഫർ ഫങ്ക്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതാണ് അതിനാൽ അത് വൈദ്യുത സംവിധാനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതുപോലെയാണ് അതിനാൽ ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ കാര്യത്തിൽ നമ്മൾ കണ്ട അതേ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉള്ള ചില ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന് സമാനമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്ത മെക്കാനിക്കൽ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഇപ്പോൾ ബ്ലോക്ക് ഡയഗ്രാമിൻറെ സഹായത്തോടെ നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും അതിനാൽ നിങ്ങൾ സമവാക്യം കാണുകയാണെങ്കിൽ സമവാക്യം ആണ് ഇപ്പോൾ നിങ്ങൾ ലാപ്ലേസ് പരിവർത്തനം എടുത്താൽ അത് ആയി മാറും ഇപ്പോൾ ഔട്ട്പുട്ട് ഇൻപുട്ടും ആണ് അതിനാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ സഹായത്തോടെ നിങ്ങൾ എങ്ങനെ പ്രതിനിധീകരിക്കും അതിനാൽ ഈ പ്രത്യേക സമവാക്യം കണ്ടാൽ ഔട്ട്പുട്ട്ട്ടാണെങ്കിൽ എന്നാൽ എന്നാൽ ആണ് അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തുചെയ്യാൻ കഴിയും ഇതിലെ ഔട്ട്പുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇതിൽ M ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇത് കംപൈൽ ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ കംപൈൽ ചെയ്യും നിങ്ങൾ f മൈനസ് K ഗുണനം y മൈനസ് B ഗുണനം എന്ന് കംപൈൽ ചെയ്യുന്നു എന്നിട്ട് 1 കൊണ്ട് M കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് y ഇരട്ട ഡോട്ട് ലഭിക്കും അതിനാൽ ഈ പ്രത്യേക സമവാക്യം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ fM ഗുണനം KM ഗുണനം M ഗുണനം തുല്യമാണ് അതിനാൽ y dot y double dot എന്നിവയുടെ പ്രത്യേക മൂല്യങ്ങൾ നിർണ്ണയിക്കുന്നതിൻറെ സഹായത്തോടെ നിങ്ങൾ ഇപ്പോൾ കണ്ട സമവാക്യം സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻറെ സഹായത്തോടെ പ്രതിനിധീകരിക്കാമെന്ന് കണ്ടെത്താനാകും അതിനാൽ മെക്കാനിക്കൽ സിസ്റ്റത്തിൻറെ കാര്യത്തിൽ നമ്മൾ എഴുതിയ സമവാക്യത്തിൻറെ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും അടുത്തതായി അതേ സിസ്റ്റത്തെ പ്രതിനിധീകരിക്കുന്നതിന് സ്റ്റേറ്റ് വെക്റ്റർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ് സമവാക്യം ഉപയോഗിക്കാം അതിനാൽ സ്റ്റേറ്റ് സമവാക്യം ആണെന്ന് നമുക്ക് പറയാം നിങ്ങളുടെ സമവാക്യം ആണ് നിങ്ങൾ സ്റ്റേറ്റ് വേരിയബിളുകൾ നിർവചിക്കേണ്ടതുണ്ട് നിങ്ങൾ എന്ന് നിർവചിക്കും അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക

അതിനാൽ നിങ്ങൾ ഇത് കംപൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക

അതിനാൽ ഇത് നിങ്ങൾക്ക് ലഭിച്ച മാട്രിക്സ് A അല്ലാതെ മറ്റൊന്നുമല്ല F ന് നിങ്ങൾക്ക് ആയ ഒരു ഘടകം മാത്രമേ ഉള്ളൂ അത് ന് എതിരായി വരുന്നു അതിനാൽ നിങ്ങൾക്ക് അതിൽ ഒരു ഘടകം മാത്രമേ ഉണ്ടാകൂ അതിനാൽ 0 1 എന്നിവയാണ്

ഇത് നിങ്ങൾക്ക് ലഭിച്ച A ആണ് ഇത് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി ലഭിച്ച B ആണ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 1 M എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് M ഉം പുറത്തെടുക്കാം അതിനാൽ നിങ്ങൾ M പുറത്തെടുക്കുമ്പോൾ അത് f M ആവുകയും ഘടകങ്ങൾ 0 1 ആവുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ ഔട്ട്പുട്ട് സമവാക്യമാണ് അതിനാൽ നിങ്ങൾക്ക് എന്ന് എഴുതാനും കഴിയും ഔട്ട്പുട്ട് സമവാക്യമായി നിങ്ങൾക്ക് ഇത് ലഭിച്ചു ഇതാണ് നിങ്ങൾക്ക് ലഭിച്ച സ്റ്റേറ്റ് സമവാക്യം അതിനാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ രീതിയുടെ സഹായത്തോടെ മെക്കാനിക്കൽ സിസ്റ്റത്തെയും പ്രതിനിധീകരിക്കാമെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസിലാക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് തുല്യമായ ബ്ലോക്ക് ഡയഗ്രം സൃഷ്ടിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്റ്റേറ്റ് സമവാക്യം രൂപത്തിൽ പ്രതിനിധീകരിക്കാം അതിനാൽ ഇപ്പോൾ നടത്തിയ മെക്കാനിക്കൽ ഇൻപുട്ടുമായി ബന്ധപ്പെട്ട ചർച്ചയുമായി നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു നമ്മൾ ചർച്ച തുടരും കൂടാതെ ഈ സിസ്റ്റത്തിൻറെ മറ്റ് ചില മെക്കാനിക്കൽ ഗുണങ്ങളും മനസിലാക്കാൻ ശ്രമിക്കും ആ സിസ്റ്റങ്ങളുടെ ഗണിതശാസ്ത്ര മോഡലുകൾ സൃഷ്ടിക്കും വൈദ്യുതത്തെ മറ്റ് മെക്കാനിക്കലുകളുമായും മറ്റ് തരത്തിലുള്ള സിസ്റ്റങ്ങളുമായും താരതമ്യപ്പെടുത്തുന്നതിലേക്ക് നമ്മൾ നീങ്ങും